ഡയൽ ഗേജ് എന്നത് റെസിപ്രോക്കേറ്റിങ് ചലനം ഒരു വൃത്താകൃതിയിലുള്ള ചലനത്തിലേക്ക് പരിവർത്തനം ചെയ്ത് അളവുകൾ നൽകുന്നു ആദ്യം നമുക്ക് ഈ ഡയൽ ഗേജിന്റെ ഘടകങ്ങൾ കാണാം ഇതൊരു വലിയ ഡയൽ ഗേജ് ആണ് അതിനാൽ ഈ ഡയൽ ഗേജിന് വിവിധ ഘടകങ്ങളുണ്ട് ആദ്യത്തെ ഘടകം ബെസെൽ ആണ് 0 ക്രമീകരിക്കാൻ തിരിക്കാൻ കഴിയുന്ന പുറം ഭാഗമാണ് ബെസെൽ അതിനാൽ 0 ക്രമീകരിക്കാൻ ഈ ബെസെൽ ഉപയോഗിക്കാം അമ്പടയാളം ഉണ്ടെങ്കിൽ നമുക്ക് അത് നീക്കാൻ കഴിയുമെന്ന് നമ്മൾ കാണുന്നു അതിനാൽ 0 എറർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്രമീകരിക്കാൻ കഴിയും ഇവിടെ നമ്മൾക്ക് പോസിറ്റീവ് എറർ ഉണ്ട് അതിനാൽ നമ്മൾക്ക് ഇത് ക്രമീകരിക്കാൻ കഴിയും നമ്മൾക്ക് മാർക്കറുകളും ഉണ്ട് നമുക്ക് കറുത്ത നിറങ്ങളിൽ കാണാൻ കഴിയും രണ്ട് മാർക്കറുകളുണ്ട് റഫറൻസ് പോയിന്റ് അടയാളപ്പെടുത്തുന്നതിന് ഈ രണ്ട് മാർക്കറുകളും ഉപയോഗിക്കുന്നു അളവുകളുടെ ആരംഭത്തിനായി ഈ മാർക്കറുകൾ സാധാരണയായി റഫറൻസ് പോയിന്റിൽ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ മാർക്കറുകളിൽ ഒന്നായിരിക്കാം കൂടാതെ നമ്മൾക്ക് രണ്ട് പോയിന്ററുകൾ ഉണ്ട് രണ്ട് പോയിന്ററുകൾ ഉള്ളതിൽ ഒന്ന് പ്രധാന പോയിന്റർ മറ്റൊന്ന് ചെറിയ പോയിന്റർ താഴത്തെ അറ്റത്ത് പ്രധാന പോയിന്റുള്ളത് നിങ്ങൾക്ക് കാണാം റെസിപ്രോക്കേറ്റിങ് ചലനo നമ്മൾ മുകളിലേക്ക് നീക്കുകയാണെങ്കിൽ വലിയ സൂചി വളരെ വേഗത്തിൽ നീങ്ങുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും 0 01 മുതൽ 10 മില്ലിമീറ്റർ വരെ എഴുതിയിരിക്കുന്ന രേഖപെടുത്തലുകൾ ഇവിടെ കാണാം ഇപ്പോൾ 0 01 ആണ് ഞാൻ എന്റെ പ്ലങ്കർ അല്പം മുകളിലേക്ക് നീക്കിയാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചലനം കാണാൻ കഴിയും അതെ അത് മൂന്ന് അളവുകൾ മുന്നോട്ട് നീങ്ങി ശരി അതിനർത്ഥം ഇത് 0 01 ഗുണം 3 ലേക്ക് നീക്കി 0 03 മില്ലീമീറ്റർ മുന്നോട്ട് വലിയ സൂചിയെ പറ്റി ആണ് ഞാൻ സംസാരിക്കുന്നത് അതിനാൽ ഞാൻ അതിനെ കുറച്ചുകൂടി തള്ളുമ്പോൾ അത് 0 മുതൽ 0 വരെ ഒരു പൂർണ്ണ ഭ്രമണം ചെയ്യുന്നു വലിയ സൂചി ഘടികാരദിശയിൽ നീങ്ങുന്നതും ചെറിയ സൂചി ഒരേ സമയം ഘടികാരദിശയ്ക്ക് എതിരായി നീങ്ങുന്നതും നിങ്ങൾക്ക് കാണാം നമ്മൾ അത് വീണ്ടും ചെയ്യും ഇത് ഘടികാരദിശയിൽ നീങ്ങുന്നു ചെറിയ സൂചി ഘടികാരദിശയ്ക്ക് എതിരായി സഞ്ചരിക്കുന്നു ഞാൻ തത്ത്വം വിശദീകരിക്കാം വലിയ സൂചി ഒരു പൂർണ്ണ ഭ്രമണം നടത്തിയതായി നിങ്ങൾക്ക് കാണാം അതായത് ഇത് 0 01 ഗുണം 100 ലേക്ക് നീക്കി വലിയ സ്കെയിലിൽ നമ്മൾ ആകെ 100 ഡിവിഷനുകളാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഒരു ഭ്രമണത്തിൽ താണ്ടുന്നു ചെറിയ സർക്കിൾ ചെറിയ വൃത്തത്തിനുള്ളിലെ ഘടികാരദിശയ്ക്ക് എതിരായി നീങ്ങിയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് 1 ഡിവിഷൻ മുന്നോട്ട് നീക്കി അതിനാൽ 0 01 മുതൽ 10 മില്ലീമീറ്റർ വരെയാണ് മിനിമം ഡിവിഷൻ അത് നൽകാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ അളവ് 0 01 ഉം പരമാവധി 10 മില്ലീമീറ്ററുമാണ് ഞാൻ പ്ലങ്കറിനെ പൂർണ്ണമായും മുകളിലേക്ക് തള്ളുകയാണെങ്കിൽ അത് ഇവിടെ 10 മില്ലിമീറ്ററിൽ കൂടുതൽ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ ഉപകരണത്തിന്റെ സെൻസിറ്റീവിറ്റി അല്ലെങ്കിൽ ഉപകരണത്തിന്റെ റേഞ്ച് 10 മില്ലീമീറ്ററാണ് അതിനാൽ നമുക്ക് ഇവിടെ പ്ലംഗർ ഉണ്ട് പ്ലംഗറിനു മുകളിൽ പ്ലംഗർ ചലിക്കുന്ന സ്റ്റെം ഉണ്ട് അതിനാൽ പ്ലംഗറിന്റെ റെസിപ്രോക്കേറ്റിങ് ചലനo സൂചിക്ക് വൃത്താകൃതിയിലുള്ള ചലനം നൽകുന്നത് നമുക്ക് കാണാം ഗിയർ ട്രെയിൻ മാത്രമാണ് ഇതിന് പിന്നിലെ തത്വം ഞാൻ മുകളിലുള്ള പ്ലങ്കർ വലിക്കുകയോ തള്ളുകയോ ചെയ്താൽ എന്തുസംഭവിക്കും സൂചി യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങുന്നു അതിനർത്ഥം ഇത് പ്രവർത്തിക്കുന്ന സ്പ്രിംഗ് സംവിധാനമാണ് അതിനാൽ ഇത് ഇവിടെ ഒരു ഹെലിക്കൽ സ്പ്രിംഗ് ആണ് അതിനാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു ഈ രീതിയിൽ ഇത് സ്പിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ എന്റെ പ്ലങ്കറാണ് ഇത് യഥാർത്ഥത്തിൽ റാക്ക് പിനിയൻ ആണ് എനിക്ക് ഇവിടെ ഒരു പിനിയൻ ഉണ്ട് അത് മുകളിലേക്കും താഴേക്കും നീങ്ങുമ്പോൾ ഈ പിനിയൻ കറങ്ങുന്നു അതിനർത്ഥം അവിടെ അത് മുകളിലേക്ക് നീങ്ങുന്നു ഈ പിനിയൻ കറങ്ങും മുകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇത് ഈ ദിശയിൽ കറങ്ങുന്നു ഈ പിനിയൻ ഇവിടെ മറ്റൊരു ഗിയറിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു ഇതാണ് എനിക്ക് ഇവിടെ എന്റെ പോയിന്റർ പി 1 ഉണ്ട് ഇപ്പോൾ ഞാൻ അത് മുകളിലേക്കുള്ള ദിശയിലേക്ക് നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയൽ ഗേജ് കാണാൻ കഴിയും ഞാൻ അത് മുകളിലേക്കുള്ള ദിശകളിലേക്ക് സാവധാനം നീക്കുകയാണെങ്കിൽ പ്രധാന പോയിന്റർ ഘടികാരദിശയിൽ കറങ്ങുന്നു നിങ്ങൾക്ക് അത് ഇവിടെ കാണാം ഞാൻ ഈ ഗിയറിനെ മുകളിലേക്കുള്ള ദിശയിലേക്ക് നീക്കുകയാണെങ്കിൽ ഞാൻ അതിനെ ഗിയർ 1 എന്ന് വിളിക്കും ഈ ഗിയർ 1 ഘടികാരദിശക്ക് എതിരായി കറങ്ങുന്നു ഞാൻ ഇത് ഘടികാരദിശയിൽ വയ്ക്കും ഇത് ഘടികാരദിശയിൽ കറങ്ങുന്ന ഗിയർ 2 എന്ത് സംഭവിക്കും ഈ പ്ലംഗറിന്റെ ഒരു ചെറിയ ചലനത്തിനൊപ്പം ഒരു വലിയ ചലനമുണ്ട് കാരണം ഇത് ചെറിയ പിനിയനാണെന്നും ഗിയർ അനുപാതം കാലിബ്രേഷൻ നടത്തിയതിനെ അടിസ്ഥാനമാക്കിയാണെന്നും നിങ്ങൾക്കറിയാം ഇത് ഗിയർ 1 നെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഗിയർ 1 ന്റെ ചെറിയ ചലനം 2 ഗിയറിന് ഒരു വലിയ ചലനം നൽകുന്നു ഇത് റാക്ക് പിനിയൻ എന്നിവയാണ് അതിനാൽ ഇതാണ് പോയിന്റർ പി 1 അതിനാൽ ഈ ചെറിയ പിനിയൻ അല്ലെങ്കിൽ ഗിയർ 2 മറ്റൊരു ഗിയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് എന്റെ ഗിയർ 3 ആണ് ഈ ചെറിയ ഗിയർ 2 കറങ്ങുന്ന ഗിയർ 3 ആണ് ഇത് എന്റെ ഗിയർ 3 ആണ് കൂടാതെ എനിക്ക് ഇവിടെ പോയിന്റർ ഉണ്ട് അതിനാൽ ഇത് എന്റെ പോയിന്റ് പി 1 ആണ് ഇത് എന്റെ പോയിന്റർ പി 2 ആണ് ഡയൽ ഗേജിന്റെ ഭ്രമണത്തോടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ഷമിക്കണം ഡയൽ ഗേജിന്റെ ചലനത്തിലൂടെ പോയിന്റർ ഒന്ന് ഒരു പൂർണ്ണ ഭ്രമണം നടത്തുന്നു പോയിന്റർ രണ്ട് മറ്റൊരു ദിശയിലേക്ക് തിരിക്കുന്നു ഇത് ആന്റി ഘടികാരദിശയിൽ കറങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും g 1 g 2 ഘടികാരദിശയിൽ കറങ്ങുന്നു g 3 വ്യക്തമായുo ആന്റി ഘടികാരദിശയിൽ തിരിക്കുക വേഗത അനുപാതം അല്ലെങ്കിൽ ഗിയർ അനുപാതം ഒരു പൂർണ്ണ ഭ്രമണം ചെറിയ പോയിന്ററിൽ ഒരു ഭാഗം മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ വലിയ പോയിന്റിലെ ഒരു പൂർണ്ണ ഭ്രമണം ചെറിയ പോയിന്ററിൽ ഒരു ഭാഗം ഉണ്ടാക്കുന്നു അതിനാൽ ഇത് ഈ രീതിയിൽ കാലിബ്രേറ്റ് ചെയ്യുന്നു നമ്മൾ പ്ലങ്കർ അല്ലെങ്കിൽ പോയിന്റർ ഉപേക്ഷിക്കുമ്പോൾ അത് യഥാർത്ഥ സ്ഥാനത്തേക്ക് വരുന്നതും നിങ്ങൾക്ക് കാണാം അതിനാൽ ഈ സ്പ്രിംഗ് സംവിധാനം ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നു ഈ ഹെലിക്കൽ സ്പ്രിംഗ് ഊർജ്ജം സംഭരിക്കുന്നു പ്ലങ്കർ മുകളിലേക്ക് തള്ളപ്പെടുമ്പോൾ ഊർജ്ജം സംഭരിക്കപ്പെടുന്നതിനാൽ അത് അവശേഷിക്കുമ്പോൾ അത് ഒരു ഊർജ്ജം പുറപ്പെടുവിക്കുകയും പ്ലങ്കർ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങുകയും ചെയ്യുന്നു നല്ലത് ഞാൻ പറയും കോൺടാക്റ്റിന്റെ പോയിന്റർ പോയിന്റ് യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങുന്നു ഇതാണ് ഡയൽ ഗേജിന്റെ തത്വം ഡയൽ ഗേജിന്റെ പ്രയോഗം എന്താണ് കറങ്ങുന്ന ഷാഫ്റ്റുകളുടെ കാര്യത്തിൽ ഡയൽ ഗേജ് കറങ്ങുന്ന ഷാഫ്റ്റിൽ ഇടുന്നു ഓഫ്സെറ്റൊ പ്ലേയോ എക്സ്സെന്ററിസിറ്റിയോ ഉണ്ടോ എന്നറിയാൻ വൈകല്യവും എക്സ്സെന്ററിസിറ്റിയും എന്താണെന്ന് ഇത് നമ്മോട് പറയും ചലനം എന്തുതന്നെയായാലും നമ്മൾ മധ്യ മൂല്യം എടുക്കുന്നു ഈ സ്റ്റാൻഡിലേക്ക് ഡയൽ ഗേജ് ഘടിപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഡയൽ ഗേജ് ഹോൾഡർ ഉപയോഗിച്ച് ഡയൽ ഗേജ് സ്റ്റാൻഡിൽ നമ്മൾക്ക് ഒരുതരം സാർവത്രിക കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ കഴിയും ഡയൽ ഗേജ് നമുക്ക് ഏത് ദിശയിലേക്കും നീങ്ങാൻ കഴിയും അതിന് യഥാർത്ഥത്തിൽ 6 ഡിഗ്രിസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും ഇത് നിങ്ങൾക്ക് ഈ ദിശയിലേക്ക് നീങ്ങാൻ കഴിയുമെന്ന് കാണാൻ കഴിയും ഈ ദിശയിലേക്ക് നീങ്ങാൻ കഴിയും അതും നീങ്ങാം ഈ ദിശയിൽ അതെ ശരി ഇത് ഡിഗ്രിസ് ഓഫ് ഫ്രീഡം ആണ് ഉയരവും ഇവിടെ ക്രമീകരിക്കാൻ കഴിയും അതിനാൽ ആവശ്യമുള്ളിടത്ത് ഇത് ഉറപ്പിക്കാൻ ആകും ഡയൽ ഗേജിനൊപ്പം അതെ ഡയൽ ഗേജിന്റെ ഉപയോഗമാണിത് എനിക്ക് ഡയൽ വെർനിയറിനെക്കുറിച്ചും സംസാരിക്കാം അതിനാൽ ഇതൊരു വെർനിയർ കാലിപ്പർ ആണ് യഥാർത്ഥത്തിൽ ഒരു തത്വമോ ഡയൽ ഗേജ് പോലുള്ള ചലനമോ ഇല്ല പക്ഷേ ഇതിന് ഒരു ഡയൽ ഉണ്ട് അതിന് ഒരു റോട്ടറി സ്കെയിൽ ഉണ്ട് ഇത് ഇവിടെ വൃത്താകൃതിയിലുള്ള സ്കെയിലാണ് ഇഞ്ചുകളിൽ കാലിബ്രേറ്റ് ചെയ്ത പ്രധാന സ്കെയിൽ ഇതിലുണ്ട് കൂടാതെ mm ഇതിന് ഉണ്ട് ഈ സ്കെയിലിന്റെ ഉപയോഗത്തിലുള്ള വെർനിയർ സ്കെയിൽ നമ്മൾക്ക് താൽപ്പര്യമുള്ളപ്പോഴെല്ലാം ഈ 0 ക്രമീകരിക്കാൻ കഴിയും നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് നിങ്ങൾ കാണുന്നിടത്ത് ഈ ഘട്ടത്തിൽ നിങ്ങൾക്കത് കാണാനും കഴിയും കൂടാതെ വെർനിയർ സ്കെയിലിൻറെ 0 എങ്കിലും ക്രമീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എണ്ണം 0 001 ഇഞ്ച് ഇത് മറ്റൊരു വൃത്താകൃതിയിലുള്ള സ്കെയിലുള്ള മറ്റൊരു വെർനിയർ കാലിപ്പറാണ് ഇത് ക്രമീകരിക്കാൻ കഴിയും ഇതാണ് നേട്ടം എന്നിരുന്നാലും മറ്റ് ഉപയോഗങ്ങൾക്ക് സമാനമാണ് ആന്തരിക ജോ ബാഹ്യ ജോകൾക്ക് ഈ ഡെപ്ത് ഗേജ് ഉണ്ട് ഈ സ്ക്രൂ മികച്ച അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ആണ് ലാബ് പ്രവർത്തിയുടെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ഇവ കാണാം ഈ പ്രവർത്തിയിൽ എന്താണ് മൈക്രോമീറ്റർ എന്ന് നോക്കാം എഞ്ചിനീയറിംഗ് മെട്രോളജി കോഴ്സ് വേണ്ടിയുള്ള ലബോറട്ടറി പ്രവർത്തനമാണിത് ഈ കോഴ്സിൽ രേഖീയ അളവുകൾ കോണീയ അളവുകൾ എന്നിവയ്ക്കുള്ള വിവിധ ഉപകരണങ്ങളെക്കുറിച്ചുള്ള അളവുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു ലീനിയർ കോണീയ അളവുകൾക്കായി ഉപയോഗിക്കുന്ന ഈ രണ്ട് പ്രധാന ഉപകരണങ്ങൾ ഞാൻ ഈ മൊഡ്യൂളിൽ ചർച്ചചെയ്യുന്നു അതിനാൽ നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്ത മൈക്രോമീറ്റർ ഒരു മിറ്റുട്ടോയോ മൈക്രോമീറ്ററാണ് ഈ മൈക്രോമീറ്ററിന് 0 മുതൽ 25 മില്ലീമീറ്റർ വരെയാണ് റേഞ്ച് ലീസ്റ്റ് കൌണ്ട് 0 01 മില്ലീമീറ്റർ സവിശേഷതകൾ ഇവിടെ നൽകിയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും മൈക്രോമീറ്ററിന്റെ ഘടകങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ചചെയ്യാം ഇവിടെ എടുക്കാവുന്ന പരമാവധി അളവ് 25 മില്ലീമീറ്ററും ലീസ്റ്റ് കൌണ്ട് 0 01 മില്ലീമീറ്ററുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലീസ്റ്റ് കൌണ്ട് വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൌണ്ട്ന്റെ പകുതിയാണ് വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൌണ്ട് 0 02 മില്ലിമീറ്ററാണ് ഇത് 0 01 മില്ലിമീറ്ററാണ് അതാണ് വെർനിയർ കാലിപ്പറുകളിൽ നമ്മൾക്ക് അളവ് ഉണ്ടായിരുന്നത് 44 448 12 28 പോലെയായിരുന്നു ഇവിടെ നമുക്ക് 12 27 അല്ലെങ്കിൽ 12 29 ആകാം ഇത് കൂടുതൽ സെൻസിറ്റീവ് ആണ് കൂടാതെ മൈക്രോമീറ്ററിന് ബാഹ്യ വ്യാസം മാത്രം അളക്കാൻ കഴിയും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു മൈക്രോമീറ്റർ ഉപയോഗിച്ച് ആന്തരിക വ്യാസം ആന്തരിക നീളം അളക്കാൻ സാധ്യമല്ല അതിനാൽ മൈക്രോമീറ്ററിന്റെ വിവിധ ഘടകങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആദ്യത്തെ ഘടകം ആൻവിൽ ആണ് നിശ്ചിത ജോയുടെ ഒരു ഭാഗമാണ് ആൻവിൽ ഞാൻ അത് ചെറുതായി തുറക്കുകയാണെങ്കിൽ ഞാൻ അത് തിരിക്കുമ്പോൾ തുറക്കുന്നതായി കാണാൻ കഴിയും ഇത് സ്ക്രൂ ഗേജ് എന്നും അറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇതിനെ സ്ക്രൂ ഗേജ് എന്ന് വിളിക്കുന്നത് കാരണം ഇത് നട്ട് സ്ക്രൂ nutscrew എന്നിവയുടെ പ്രിൻസിപ്പലിൽ പ്രവർത്തിക്കുന്നു ഇത് ഒരു സ്ക്രൂ അഴിക്കുകയോ കർശനമാക്കുകയോ ചെയ്യുന്നതിന് തുല്യമാണ് ശരി നമ്മൾ സ്ക്രൂ അഴിക്കുമ്പോൾ ഈ നിശ്ചിത ഘടകം ആൻവിൽ ആണെന്നും ഇത് ഈ ഉപരിതലത്തെ അടിസ്ഥാനമാക്കി കാലിബ്രേറ്റ് ചെയ്യുന്നുവെന്നും കാണാം ഈ ഉപരിതലം വളരെ പരന്നതാണ് ആൻവിൾ ഉപരിതലം പരന്നതാണ് നമുക്ക് ഇവിടെ തിമ്പിൽ അല്ലെങ്കിൽ സ്പിൻഡിൽ ഉണ്ട് അത് നമുക്ക് മുന്നോട്ട് അല്ലെങ്കിൽ പിന്നിലേക്ക് നീങ്ങാൻ കഴിയുന്ന സ്ക്രൂ ഉപയോഗിക്കുന്നു കൂടാതെ ഈ ലോക്ക് നട്ട് ഉപയോഗിച്ച് ഏത് സമയത്തും നമുക്ക് അളവ് ലോക്ക് ചെയ്യാൻ കഴിയും അതിനാൽ നമ്മൾ അളവ് എടുത്തുകഴിഞ്ഞാൽ ഈ ലോക്ക് നട്ട് വീണ്ടും സൌകര്യത്തിനായി ഉപയോഗിക്കുന്നു ഈ ഘട്ടത്തിൽ നമുക്ക് അളവ് ലോക്ക് ചെയ്യാനും പിന്നീട് അത് വളരെ എളുപ്പത്തിൽ രേഖപ്പെടുത്താനും കഴിയും നമ്മൾക്ക് ഇവിടെ രണ്ട് സ്കെയിലുകളുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പ്രധാന സ്കെയിലും മൈക്രോ സ്കെയിൽ വൃത്താകൃതിയിലുള്ള സ്കെയിലുമാണ് 0 നും 5 നും ഇടയിലുള്ള പ്രധാന സ്കെയിലിൽ നമുക്ക് കാണാൻ കഴിയും 10 ഡിവിഷനുകൾ നമുക്ക് 5 ഡിവിഷനുകളുണ്ടെന്ന് തോന്നുന്നു എന്നിരുന്നാലും മുകൾ ഭാഗത്ത് 5 ഡിവിഷനുകളുണ്ട് താഴത്തെ ഭാഗത്ത് ഒരു ഡിവിഷനുമുണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗത്തെ ഡിവിഷനുകൾക്കിടയിലുമാണ് അതിനാൽ മുകളിലെ വശത്ത് 1 മില്ലീമീറ്റർ ഉള്ള ആദ്യ ഡിവിഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യം മുകളിലെ വശം 1 മില്ലീമീറ്ററാണെന്ന് നമ്മൾക്കറിയാം താഴത്തെ വശം പറഞ്ഞാൽ ഈ ഡിവിഷൻ 0 നും 1 നും ഇടയിലാണ് 0 5 മില്ലിമീറ്റർ ഞാൻ അത് പൂർണ്ണമായും അടച്ചാൽ അവസാനം നിങ്ങൾ ഒരു ക്ലിക്ക് ശബ്ദം കേൾക്കുമെന്ന് നിങ്ങൾ കാണും അവിടെ വീണ്ടും ക്ലിക്കുചെയ്യുക ഞാൻ തുറക്കുന്നു വീണ്ടും ഞാൻ അടയ്ക്കുന്നു ക്ലിക്ക് ഈ ക്ലിക്ക് യഥാർത്ഥത്തിൽ ഒരു ദിശയിലേക്ക് നീങ്ങാൻ കഴിയുന്ന റാറ്റ്ചെറ്റ് മെക്കാനിസമാണ് ഞാൻ അത് തുറക്കുമ്പോൾ ഒരു ക്ലിക്കോ പ്ലേറ്റോ ഇല്ലെങ്കിൽ മാത്രം എന്നാൽ ഞാൻ അത് ഘടികാരദിശയിൽ തിരിക്കുമ്പോൾ ഇത് ക്രമീകരിക്കാൻ കഴിയും അത് ക്ലിക്ക് പോലുള്ള ക്ലിക്ക് ശബ്ദങ്ങൾ നൽകുന്നത് തുടരും എന്നാൽ വർക്ക് പീസ് അല്ലെങ്കിൽ നമ്മളുടെ ചലിപ്പിക്കാവുന്ന സമ്മർദ്ദം മതിയെന്ന് നമ്മളെ അറിയിക്കാൻ ഒരു ക്ലിക്ക് മതി അതാണ് നമ്മളുടെ ചലിക്കാൻ കഴിയുന്ന സ്പിൻഡിലുകൾ വർക്ക് പീസിൽ സ്പർശിക്കുന്നത് അതിനർത്ഥം ഇത് ഒരു ക്ലിക്കിലൂടെ മതിയാകും ഇത് റാറ്റ്ചെറ്റ് അറ്റാച്ചുമെന്റ് ഇവിടെ മറ്റ് ഘടകങ്ങൾ നമ്മൾ ക്രമീകരിക്കുകയും താഴത്തെ ഫ്രെയിമിനെ യു ഫ്രെയിം യു ആകൃതിയിലുള്ള സ്റ്റീൽ ഫ്രെയിം എന്ന് വിളിക്കുകയും ചെയ്യുന്നു തുടർന്ന് നമുക്ക് ഇവിടെ തിമ്പിൽ തുടർന്ന് നമുക്ക് ഇവിടെ സ്ലീവ് ഉണ്ട് നമ്മൾക്ക് സ്പിൻഡിൽ ഉണ്ട് ചലിപ്പിക്കാവുന്ന ഭാഗം സ്പിൻഡിൽ എന്നറിയപ്പെടുന്നു അതിനാൽ മൈക്രോമീറ്ററിന്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ് ഈ മൈക്രോമീറ്റർ പ്രവർത്തിക്കുന്ന തത്ത്വം സ്ക്രൂവിന്റെ തത്വമാണ് അത് സ്ക്രൂ ഗേജിന്റെ തത്വമാണ് സ്ക്രൂ പിച്ച് എനിക്ക് മൈക്രോമീറ്ററിന്റെ തത്വം എഴുതാൻ കഴിയും വലിയ ഭ്രമണങ്ങളിലേക്ക് നേരിട്ട് അളക്കാൻ രണ്ട് ചെറുതായ ചെറിയ ദൂരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ സ്ക്രൂവിന്റെ ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് മൈക്രോമീറ്റർ ഞാൻ ഒരു പൂർണ്ണ ഭ്രമണം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും 0 വീണ്ടും ഈ കേന്ദ്ര രേഖയുമായി പൊരുത്തപ്പെടുന്നു അത് 0 5 നീക്കി മില്ലീമീറ്റർ മുന്നോട്ട് മധ്യരേഖയുള്ള വരി ഇവിടെ കാണാം മധ്യരേഖയ്ക്ക് താഴെയുള്ള വരി 0 5 മില്ലീമീറ്റർ അതായത് വൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണം നിങ്ങൾക്ക് 5 മുതൽ 0 വരെ കാണാൻ കഴിയുന്ന 50 ഡിവിഷനുകൾ ഉണ്ടായിരുന്നു അത് കാണിക്കാൻ ഞാൻ അത് തിരിക്കും 0 5 10 15 20 അതിനാൽ എനിക്ക് 50 ഡിവിഷനുകളുണ്ട് ഒരു റൊട്ടേഷൻ അതിനെ 0 5mm ലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും ഈ വലിയ ഭ്രമണം സ്ക്രൂവിന്റെ വലിയ ഭ്രമണം സ്പിൻഡിൽ ചെറിയ ചലനം മാത്രമേ നൽകുന്നുള്ളൂ അതിനാൽ ഇതാണ് തത്വം ഒരു പൂർണ്ണ ഭ്രമണം 0 5 മില്ലീമീറ്റർ മാത്രം മറ്റൊരു പൂർണ്ണ ഭ്രമണം 0 5 മില്ലീമീറ്റർ മാത്രം മൈക്രോമീറ്ററിന്റെ ഏറ്റവും കുറഞ്ഞ എണ്ണത്തെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിയുള്ള തത്വമാണിത് 50 ഡിവിഷനുകളിൽ 0 5 മില്ലീമീറ്റർ 0 5 മില്ലീമീറ്റർ കണ്ടതായി നിങ്ങൾക്ക് കാണാൻ കഴിയും മൈക്രോമീറ്ററിന്റെ തത്വം 50 ഡിവിഷനുകളിൽ 0 5 മിമി ആണ് ലീസ്റ്റ് കൌണ്ട് 0 01 mm അതിനർത്ഥം ലീസ്റ്റ് കൌണ്ട് 0 5 മുതൽ 50 വരെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാം 0 01 മില്ലീമീറ്ററിന് തുല്യമാണ് എന്നിരുന്നാലും ഇവിടെ ലീസ്റ്റ് കൌണ്ട് വൃത്താകൃതിയിലുള്ള സ്കെയിലുകളിലെ ഡിവിഷനുകളുടെ എണ്ണം അനുസരിച്ച് പിച്ചിന് തുല്യമാണ് അതിനാൽ പിച്ച് ഒരു റൊട്ടേഷനിലാണ് അത് ത്രെഡ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതുപോലെയുള്ള ത്രെഡ് സിസ്റ്റത്തിന്റെ ഫീഡ് ഇതിനകം തന്നെ ലഭിക്കും ഒരു റൊട്ടേഷൻ ഒരു റൊട്ടേഷനിൽ എത്ര മുന്നോട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രൂ എത്രത്തോളം പോയി എന്ന് ഒരു ഭ്രമണത്തിൽ പിച്ച് ഡിവിഷനുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ലീസ്റ്റ് കൌണ്ട് ലഭിക്കും അവ ഇവിടെ ലളിതമായ ബന്ധമാണ് Least CountPitchNo of divisions on circular scale ഇത് നമ്മളുടെ ലീസ്റ്റ് കൌണ്ട് അളക്കുന്ന മൂല്യത്തിന്റെ അളവ് അളന്ന മൂല്യം പ്രധാന സ്കെയിൽ അളവിന് തുല്യമാണ് കൂടാതെ വൃത്താകൃതിയിലുള്ള സ്കെയിൽ അളവിലേക്ക് ലീസ്റ്റ് കൌണ്ട് കണക്കാക്കുകയും ചെയ്യും ഇത് പ്രധാന സ്കെയിൽ അളവും ചില എററുകളുമുണ്ടെങ്കിൽ തുടക്കത്തിൽ 0 വരിയുടെ മധ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ എറർ ഈ മൈനസ് അല്ലെങ്കിൽ പ്ലസ് എറർ ക്രമീകരിക്കേണ്ടതുണ്ട് R L R - Zero Error യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ പൂജ്യം എറർ ഇടുകയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ പൂജ്യം എറർ എല്ലായ്പ്പോഴും കുറയ്ക്കും അതിനാൽ ഈ മൈനസ് സീറോ എറർന് മൂന്ന് പദങ്ങളുണ്ട് അതിനാൽ മൈക്രോമീറ്റർ ഉപയോഗിച്ച് കുറച്ച് അളവുകൾ കണ്ടെത്താൻ ശ്രമിക്കാം ആദ്യം നമുക്ക് ഒരു ലളിതമായ സ്റ്റീൽ വയർ തിരഞ്ഞെടുക്കാം നടപടിക്രമത്തേക്കാളും സവിശേഷതകളേക്കാളും അളക്കേണ്ട അളവുകളേക്കാളും അല്പം കൂടി ഒരു വിടവിലേക്ക് നമ്മൾ അതിനെ അഴിച്ചുമാറ്റുന്നു തുടർന്ന് നമ്മൾ വയർ ചേർക്കും തുടർന്ന് ഞാൻ ആൻവിലിന്റെ വയർ അവസാനം ഇടും അത് അടയ്ക്കുക അതിനാൽ റാറ്റ്ചെറ്റിൽ ഒരു ക്ലിക്ക് ശബ്ദമോ ഒരു ക്ലിക്ക് ശബ്ദമോ ഉണ്ടാക്കുന്നു ഇപ്പോൾ ഞാൻ നട്ട് ലോക്ക് ചെയ്തു എനിക്ക് ഇത് പുറത്തെടുക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് കാണാനാകും അളവിന്റെ പ്രധാന സ്കെയിൽ 3 5 ൽ കൂടുതലാണ് ഇത് 3 5 ആണ് അളവ് 3 5 ൽ കൂടുതലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും അത് 4 കടന്നതായി തോന്നുന്നു പക്ഷേ ഞാൻ കേന്ദ്ര രേഖ കണ്ടാൽ കേന്ദ്ര രേഖ 49 ാം ഡിവിഷനുമായി യോജിക്കുന്നു 0 ന് മുമ്പുള്ള ഒരു ഡിവിഷൻ ഞാൻ 3 5 പ്ലസ് 0 01 നെ 49 ആക്കി അതിനാൽ എന്തെങ്കിലും പൂജ്യം പിശക് ഉണ്ടോ എന്തെങ്കിലും പൂജ്യം എറർ ഉണ്ടോ എന്ന് കാണാൻ ഞാൻ അത് അടയ്ക്കട്ടെ അതിനാൽ 0 നമ്മുടെ കേന്ദ്ര രേഖയുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അതെ ഇതാണ് ഇത് യാദൃശ്ചികമാണ് പൂജ്യം എറർകളൊന്നുമില്ല അതിനാൽ ഈ എറർ 0 ആണ് അതിനാൽ ഈ വയർ വ്യാസം 3 99 ന് തുല്യമാണ് Measured Value M R - Zero Error 3 99 mm ശരി ഈ വയർ വാങ്ങിയപ്പോൾ അത് 4 മില്ലീമീറ്റർ അളവിൽ വാങ്ങുന്നു അതിനാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന അളവ് 3 9 മില്ലിമീറ്ററാണെന്ന് നമുക്ക് കാണാൻ കഴിയും വയർ വാങ്ങിയാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന സംവേദനക്ഷമത 4 മില്ലീമീറ്റർ വയർ കൂടാതെ പ്ലസ് മൈനസ് 0 02 ആണ് ടോളറൻസ് ഇത് സ്വീകാര്യമാണ് അതിനാൽ 3 99 മില്ലീമീറ്റർ അളവാണ് മറ്റൊരു ഘട്ടത്തിൽ അളവ് നമുക്ക് കാണാൻ കഴിയും ഇത് 3 98 അല്ലെങ്കിൽ 3 97 ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു കാരണം 0 01 മില്ലീമീറ്റർ ഇത് നഗ്നനേത്രങ്ങളാൽ തിരിച്ചറിയാൻ കഴിയില്ല അല്ലെങ്കിൽ കൈകൊണ്ട് അനുഭവിക്കാൻ കഴിയില്ല അതിനാൽ ഇത് ചെയ്യാൻ കഴിയും ഞാൻ ഒരു പരീക്ഷണം നടത്തും വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് നമ്മൾ കണക്കാക്കിയ വ്യാസം വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് നമ്മൾ അളന്ന ഘടകങ്ങളുടെ അളവുകളുടെ വ്യാസങ്ങൾ കാണാൻ ഞാൻ ശ്രമിക്കും മൂല്യങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂല്യങ്ങൾ മൈക്രോമീറ്റർ ഉപയോഗിച്ച് കാണാൻ ഞാൻ ശ്രമിക്കും നമുക്ക് ശ്രമിക്കാം അതിനാൽ നമ്മൾക്ക് അവിടെ ഉണ്ടായിരുന്ന മൂല്യങ്ങൾ 0 02 സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു ശരി ഓഡ് ആയ ദശാംശത്തിന്റെ ഇരട്ട സ്ഥാനങ്ങൾ അവിടെ രണ്ടാം സ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ സ്ഥലം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓഡ് ആയ സ്ഥാനങ്ങളുംഅവിടെയുണ്ട് സംവേദനക്ഷമത അതിന്റെ ഇരട്ടിയാണ് അളവ് അതിന്റെ 50 ശതമാനമോ അതിന്റെ പകുതിയോ ആയിരിക്കും അതിനാൽ വിവിധ സ്ഥലങ്ങളിൽ പെൻസിലിന്റെ നീളം അളക്കാൻ ഒരു പരീക്ഷണം നടത്താൻ നമ്മൾ തീരുമാനിച്ചു ഇത് പെൻസിലാണ് പെൻസിലിന്റെ കനം ഇവിടെ പെൻസിലിന്റെ പൊതുവായ കനം എന്താണ് നോക്കാം ഇത് ഉപയോഗിച്ചാണ് ഞാൻ ഒരു ക്ലിക്കിലൂടെ നട്ട് ലോക്കുചെയ്യുന്നതിലൂടെ ഈ കനം അടുത്ത് വരുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ അളവ് 0 കാണാൻ കഴിയും ആദ്യ അളവ് ഈ 5 ആം ആറാം 7 ന് ശേഷം ഈ ആദ്യ അളവ് പൊരുത്തപ്പെടുന്നു ഒരു ഘട്ടത്തിൽ പെൻസിലിന്റെ കനം നീളം 7 01 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഞാൻ ഇത് അൺലോക്കുചെയ്യുകയും ആരംഭ പോയിന്റിനേക്കാൾ അല്പം ആഴമുള്ള രണ്ടാമത്തെ പോയിന്റിൽ എടുക്കുകയും ചെയ്യട്ടെ ഞാൻ ലോക്ക് ചെയ്യുന്ന ക്ലിക്ക് നൽകാം ഇവിടെയുള്ള അളവ് ഇപ്പോൾ അൽപ്പം കുറവാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും 44 ാമത്തെ അളവ് ഇവിടെ ഒത്തുപോകുന്നുവെന്ന് വൃത്താകൃതിയിലുള്ള സ്കെയിലിന്റെ 44 ാമത്തെ അളവ് പ്രധാന സ്കെയിലുമായി പൊരുത്തപ്പെടുന്നതും 6 5 ന് ശേഷവുമാണ് 44 പ്ലസ് 0 44 പ്ലസ് 6 4 അതിനാൽ നമ്മൾക്ക് ഇവിടെ രണ്ട് അളവ്കൾ ലഭിച്ചു പെൻസിൽ കട്ടിക്ക് ഇത് 7 01 6 94 ആണ് അതേ ഉപരിതലത്തിൽ മറ്റൊരു അളവ് ഞാൻ എടുക്കാം ഒരു ക്ലിക്കിലൂടെ നട്ട് ലോക്ക് ചെയ്യുന്നത് ഇതിൽ 20 കൾ ഉണ്ട് ഇത് യഥാർത്ഥത്തിൽ 5 6 7 7 5 25 അതെ ഇത് കുറച്ചു മാറിയാണ് 75 പെൻസിൽ ഒരു ഉപകരണമാണെന്ന് നിങ്ങൾക്കറിയാം അത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഒരു കൈയിൽ ഉപയോഗിക്കേണ്ടതാണ് കൂടാതെ പേനയുടെയോ പെൻസിലിന്റെയോ അളവ് നമ്മൾ ഉപയോഗിക്കുന്നതെന്തും 5 മില്ലീമീറ്റർ മുതൽ 6 മുതൽ 7 മില്ലീമീറ്റർ വരെ 15 മില്ലീമീറ്ററാണ് കൃത്യമായ റൈറ്റിംഗ് പെൻസിൽ ഒരുതരം കൃത്യമായ രചനയാണ് വൈറ്റ് ബോർഡുകൾ മുതലായവയ്ക്ക് ഇത് 20 മില്ലീമീറ്ററായിരിക്കാം അത് വലുതായിത്തീരുമ്പോഴെല്ലാം അത് സംവേദനക്ഷമതയോ അല്ലെങ്കിൽ എഴുത്തിലെ കൃത്യതയോ കുറവ് ആയിരിക്കും അതിനാൽ പൊതുവേ പെൻസിലിന്റെ കനം 7 മില്ലീമീറ്ററാണ് പക്ഷേ ഞാൻ ഇത് കണക്കാക്കിയാൽ മൈക്രോമീറ്റർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ വ്യതിയാനം കാണാൻ കഴിയും 7 94 7 55 അതിനാൽ ഇത് ഒരു ചെറിയ വഴിയാണ് കാരണം ഇത് കയ്യിൽ പിടിക്കാൻ മാത്രമുള്ളതാണ് അതിനാൽ ശ്രേണി ആറ് പോയിന്റുകൾക്കിടയിലായിരിക്കാം കാരണം പെൻസിലിൽ പെയിന്റും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇതും കുറച്ച് കട്ടിയുള്ളതാണ് ഇത് 7 മില്ലീമീറ്ററിനടുത്ത് രൂപകൽപ്പന ചെയ്യുന്നത് വളരെ പ്രധാനമല്ല ഇത് 6 പോയിന്റിൽ നിന്ന് 6 5 മില്ലീമീറ്റർ മുതൽ 8 മില്ലീമീറ്റർ വരെ വ്യത്യാസപ്പെടാം അതിനാൽ യഥാർത്ഥത്തിൽ ഇത് ഒരു കീ ആയിരുന്നെങ്കിൽ അത് എങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് കാണാനുള്ള ഒരു മാർഗമാണ് അത് ഒരു ലോഹ ഷഡ്ഭുജാകൃതിയിലുള്ള കീ ആയിരുന്നെങ്കിൽ അത് ഗോ അല്ലെങ്കിൽ നോ ഗോ ഗേജ് ശരി എന്നിങ്ങനെയുള്ളവയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇത് കൂടുതൽ കൃത്യമായിരിക്കണം പക്ഷേ ഇത് പൂർണ്ണമായും ഒരു കൈയിൽ പിടിച്ചിരിക്കണം അത് വളരെ കൃത്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യേണ്ടതില്ല ഇത്രയും മൈക്രോമീറ്ററിനെക്കുറിച്ചായിരുന്നു അടുത്തതായി ഞാൻ ഈ ഉപരിതല പ്ലേറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യും ഇവിടെ നമുക്ക് ഒരു ഉപരിതല പ്ലേറ്റ് ഉണ്ട് ഉപരിതല പ്ലേറ്റ് യഥാർത്ഥത്തിൽ ഒരു മെട്രോളജി ലാബിൽ സൂക്ഷിച്ചിരിക്കുന്ന അടിസ്ഥാന ഉപകരണം ആണ് എനിക്ക് പറയാൻ കഴിയും കാരണം എല്ലാ ജ്യാമിതീയ കൃത്യതയുടെയും അടിത്തറ നിങ്ങൾക്കറിയാം കൂടാതെ എല്ലാ അളവുകളും ഒരു പരന്ന തലം ആണ് ഇത് യഥാർത്ഥത്തിൽ വർക്ക് ഷോപ്പിൽ പരിശോധന ലബോറട്ടറികൾ നൽകിയിട്ടുണ്ട് ഉപരിതല പ്ലേറ്റ് ഉപയോഗിച്ച് മാത്രം ഇത് ഒരു കാസ്റ്റ് ഇരുമ്പ് ഉപരിതല പ്ലേറ്റാണ് ഉപരിതല പ്ലേറ്റിന് ഉയർന്ന കൃത്യത കൈവരിക്കാൻ കഴിയും കൃത്യത 10 മൈക്രോമീറ്റർ മുതൽ 0 01 മില്ലീമീറ്റർ വരെയാകാം എന്നാൽ 3000 മില്ലീമീറ്റർ മികച്ചതാണ് അതിന്റെ കൃത്യത ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായിരിക്കും യഥാർത്ഥത്തിൽ ഇത് ഒരു പഴയ ഉപരിതല പ്ലെയിനാണ് ഇത് ആദ്യം ഐഐടി കാൺപൂരിൽ ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പാണ് വാങ്ങിയതെന്ന് ഞാൻ കരുതുന്നു ഈ ദിവസങ്ങളിൽ ലഭ്യമായ സ്ഥലങ്ങൾ ഗ്രാനൈറ്റ് കല്ല് പോലെയാണ് ഉപരിതല പ്ലേറ്റ് കറുത്ത ഗ്രാനൈറ്റ് ഉപരിതല പ്ലേറ്റും അവിടെയുണ്ട് കറുത്ത ഗ്രാനൈറ്റ് ഉപരിതല പ്ലേറ്റിന്റെ സംവേദനക്ഷമത ഒരു ഇഞ്ചിന്റെ 10000 ഇൽ 1 വരെയാണ് ഇത് ഒരു ഉപരിതല പ്ലേറ്റാണ് ഇത് n അളവുകൾ 15 ഇഞ്ച് മുതൽ 15 ഇഞ്ച് വരെ നീളവും വീതിയും കനം 1 ഇഞ്ചുമാണ് സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സുഗമമായ ഉപരിതലമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തതായി നമ്മൾ ഒരു സ്പിരിറ്റ് ലെവലിലേക്ക് നീങ്ങും അത് അടിത്തറയിലേക്ക് ശരിയായി പരന്നുകിടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു കാര്യമാണ് ഉപരിതല പ്ലേറ്റ് ഒരു മെട്രോളജി ലാബിന്റെ അടിത്തറയായി മാറുന്നു മിക്ക ഉപരിതല പ്ലേറ്റുകൾ ചതുരാകൃതിയിലുള്ള ആകൃതിയിലുള്ളവയാണ് അവ 4 മുതൽ 3 വരെ നീളമുള്ള വീക്ഷണാനുപാതം 4 മുതൽ 3 വരെയാണ് അവ ചതുരമായിരിക്കാം അവ വൃത്താകൃതിയിലാകാം അല്ലെങ്കിൽ ജ്യാമിതീയമായി വളരെയധികം 3 പ്ലേറ്റ് രീതി ഉപയോഗിച്ച് ഒരു പരന്ന തലം സൃഷ്ടിക്കുന്നതിന് ശരിയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന കാസ്റ്റ് ഇരുമ്പ് ഉപരിതല പ്ലേറ്റുകൾക്ക് പ്രത്യേക റിബണിംഗും ഘടനയുടെ രൂപവത്കരണവുമുണ്ട് അതിനാൽ ഇത് ഭാരം കുറയ്ക്കാൻ കഴിയുന്നത്ര ഭാരം കുറഞ്ഞതായിരിക്കും എന്നാൽ ഇത് വളരെ ദൃഢ മായ ഉപരിതല ഘട്ടമല്ലെന്ന് നിങ്ങൾക്കറിയാം അതിന് താഴെയായി റിബണിംഗ് ഉണ്ട് ഭാരം കുറയ്ക്കുന്നതിനാലാണ് ഇത് മുഴുവൻ ഖരമല്ല അതിനാൽ ഭാരം കുറയ്ക്കുന്നതിന് ഇത് അവിടെയുണ്ട് ഉപരിതല പ്ലേറ്റിന്റെ ഉപരിതലത്തിന്റെ യഥാർത്ഥ തലം യന്ത്രമോ സ്ക്രാപ്പോ അല്ല അത് ശരിക്കും പ്രായമാകുകയും എല്ലാ ആന്തരിക ഉപരിതലങ്ങളും കുറയുകയും ചെയ്യും വരെ വാസ്തവത്തിൽ ഗ്രാനൈറ്റ് ഉപരിതല പ്ലേറ്റ് വളരെ നല്ല ക്രമീകരണമാണ് ഇത് സ്ഥാപിക്കുന്ന പ്ലേറ്റുകളുടെ കാസ്റ്റ് ഇരുമ്പ് ഉപരിതലത്തെ മാറ്റിസ്ഥാപിക്കുന്നതാണ് കാരണം ഗ്രാനൈറ്റ് ഉപരിതല പ്ലേറ്റുകൾ വീണ്ടും വീണ്ടും ഗ്രൌണ്ട് ചെയ്യാൻ കഴിയും മാത്രമല്ല ചെലവ് ഈ ഉപരിതല പ്ലേറ്റിൽ കുറവാണ് ഉപരിതലം കഠിനമാണ് അവിടെ ഒരു ഉപരിതല കാഠിന്യം ഉണ്ട് നമുക്ക് അത് മെഷീൻ ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോഴെല്ലാം ഉപരിതലം വീണ്ടും കഠിനമാക്കേണ്ടതുണ്ട് അത്തരം ചില ബമ്പുകൾ ഉണ്ടാവാം യഥാർത്ഥത്തിൽ സെൻസിറ്റീവ് കൈയ്ക്ക് ബമ്പുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് കാണാൻ കഴിയും ശരി ഇതൊരു പഴയ ഉപരിതല തലം ചെറിയ തേയ്മാനം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ശരി പക്ഷേ ഇത് വീണ്ടും പ്രവർത്തനക്ഷമമാകും ഉപരിതല പ്ലേറ്റിൽ ഹയിറ്റ് ഗേജ് സ്പിരിറ്റ് ലെവൽ മറ്റ് ഉപകരണം എന്നിവ ഉപയോഗിക്കുക ശരി അടുത്ത ഉപകരണം ഒരു ഫീലർ ഗേജ് ആണ് നിരവധി സ്ട്രിപ്പുകളുള്ള ഒരു ഉപകരണമാണ് ഫീലർ ഗേജ് യഥാർത്ഥത്തിൽ ഇവിടെ വ്യത്യസ്ത സ്ട്രിപ്പുകൾ ഉണ്ട് രണ്ട് പരന്ന പ്രതലങ്ങൾക്കിടയിലുള്ള വിടവ് ബിറ്റുകൾ അളക്കാൻ ഫീലർ ഗേജ് ഉപയോഗിക്കുന്നു അവിടെ എത്താൻ പ്രയാസമാണ് ഫീലർ ഗേജിന് അത് അവിടെയെത്താം വീതി ഈ ദൂരം 1 മില്ലീമീറ്ററാണ് ഇത് 0 05 മില്ലീമീറ്ററാണ് ഇത് 0 01 മില്ലീമീറ്ററാണ് വിവിധതരം ഫീലർ ഗേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾക്ക് ഒരു ഫീലർ ഗേജും ഉണ്ട് അത് വീതി പായ്ക്കുകൾ വീതി പായ്ക്കുകൾ ഉണ്ടാക്കുന്നു അതിൽ 10 ബ്ലേഡുകൾ ഉണ്ട് അതിൽ അളവുകൾ 5 മുതൽ 100 വരെ 10 ബ്ലേഡുകൾ ഉള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും 80 മുതൽ 100 മില്ലീമീറ്റർ വരെ ഉദാഹരണത്തിന് ഫീലർ ഗേജ് ഉപയോഗിക്കാം ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട് സ്പാർക്ക് പ്ലഗ് തമ്മിലുള്ള ദൂരം 0 6 മില്ലീമീറ്ററാണെന്ന് കാണാം സ്പാർക്ക് പ്ലഗ് തുടർച്ചയായി തീപ്പൊരികൾ നൽകുമ്പോൾ സ്പാർക്ക് പ്ലഗിന്റെ ആന്തരിക ഘടകം വഷളാകുകയും വിടവ് വർദ്ധിക്കുകയും ചെയ്യുന്നു ആവശ്യമുള്ള മൂല്യത്തിലേക്ക് വിടവ് തിരികെ കൊണ്ടുവരാൻ മെക്കാനിക്ക് സ്പാർക്ക് പ്ലഗിന്റെ മുകളിൽ നിന്ന് ടാപ്പുചെയ്യുന്നത് നമ്മൾ കാണുന്നു ആവശ്യമുള്ള മൂല്യം 0 6 മിമി ആണ് ഫീലർ ഗേജ് എന്നിരുന്നാലും മെക്കാനിക്കിന് ഇത് സ്വയം ചെയ്യാൻ കഴിയും പക്ഷേ ശരിയായ മാർഗ്ഗം 0 6 മില്ലീമീറ്റർ ഫീലർ ഗേജ് ഉപയോഗിക്കുക എന്നതാണ് ഇത് ഞാൻ ശ്രമിക്കുന്ന ഫീലർ ഗേജിന്റെ ഇലകളിലൊന്നായ ഒരു ഫീലർ ഗേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും അതിൽ ഇടുന്നത് ശരിയായി നടക്കുന്നില്ല ഞാൻ ഇവിടെ ഫീലർ ഗേജിന്റെ ഒരു ലീഫ് ഇടാൻ ശ്രമിക്കുന്നു ഏറ്റവും വലിയ ലീഫ് 80 മുതൽ 100 വരെയാണ് അതായത് 0 8 എന്നത് 8100 ൽ പോകുന്നില്ല ശരിയായി പോകുന്നില്ല കൃത്യമായി 60 മുതൽ 100 വരെയുള്ള രണ്ടാമത്തെ ലീഫ് 0 6 ആണ് ഇത് സ്പാർക്ക് പ്ലഗിലെ മുകളിലും താഴെയുമുള്ള ഇലക്ട്രോഡ് തമ്മിലുള്ള ദൂരം 0 6 മില്ലീമീറ്ററാണെന്നും ഇത് ക്രമീകരിക്കാമെന്നും പറയുന്നു ഫീലർ ഗേജ് വിവിധ തരത്തിലുള്ളവയാണ് നമ്മൾക്ക് GO NO GO ഗേജ് ടാപ്പർഡ് ഗേജ് GO NO GO ഫീലർ ഗേജ് ഉണ്ട് ഇതിന് കട്ടിയുള്ള അടിത്തറയും നേർത്ത ടിപ്പും ഉണ്ട് ഗേജിന്റെ കനംകുറഞ്ഞ അവസാനം വിടവിലേക്ക് പോകാം കട്ടിയുള്ള ഇടത്തിലേക്ക് പോകില്ല അതിനാൽ ഇത് GO NO GO ഇത് നേർത്തതാണ് ഇത് കട്ടിയുള്ളതാണ് അപ്പോൾ നമുക്ക് ഇവിടെയുള്ളതുപോലെ നേരായ ലീഫ് ഫീലർ ഗേജ് ഉണ്ട് ഇപ്പോൾ ഇത് ഒരു നേരായ ലീഫ് ഫീലർ ഗേജ് ആണ് ലീഫ് കനം അതിന്റെ നീളത്തിലുടനീളം സമാനമാണ് തുടർന്ന് നമ്മൾക്ക് മെട്രിക് ഫീലർ ഗേജ് ഉണ്ട് അല്ലെങ്കിൽ മെട്രിക് ഇംപീരിയൽ ഫീലർ ഗേജ് ഇതാണ് രണ്ട് വ്യത്യസ്ത ഫീലർ ഗേജുകളുടെ സംയോജനം മെട്രിക് ഫീലർ ഗേജ് നൂറുകണക്കിന് മില്ലിമീറ്ററിലും അളവുകൾ നൽകുന്നു ഇംപീരിയൽ ഇഞ്ച് തരം ആണ് ഇത് ആയിരക്കണക്കിന് ഇഞ്ചിൽ അളവ് നൽകുന്നു അതിനാൽ ഇത് മെട്രിക്കിന്റെയും ഇംപീരിയൽ ഫീലർ ഗേജുകളുടെയും സംയോജനമാണ് അതിനുശേഷം നമുക്ക് ടാപ്പേർഡ് ഫീലർ ഗേജ് ഉണ്ട് ലീഫ് ഫീലർ ഗേജുകൾക്ക് ടിപ്പിന് നേർത്ത നേർത്ത ലീഫ്ണ്ട് ഈ ഫീലർ ഗേജ് യഥാർത്ഥത്തിൽ ഒരു ടേപ്പർ ചെയ്ത ഒന്നാണ് അതിന്റെ അഗ്രത്തേക്ക് ടാപ്പുചെയ്ത ലീഫ് കണ്ടാൽ അതിനാൽ ടാപ്പർ ചെയ്ത ഫീലർ ഗേജ് ഇതാണ് അപ്പോൾ ഫീലർ സ്ട്രിപ്പ് ഇവിടെയുണ്ട് ഇത് സമാനമായി പ്രവർത്തിക്കുന്നു രണ്ട് ഫീലർ ഗേജ് ബ്ലേഡുകൾ ഒഴിവാക്കലുകൾ അവ ഒരു സെറ്റിൽ ശരിയാക്കിയിട്ടില്ലെന്നും രണ്ട് അറ്റവും അളക്കാൻ ഉപയോഗിക്കാമെന്നും ആണ് അതിനാൽ ഇത് ഫീലർ സ്ട്രിപ്പാണ് ഇത് ഇവിടെ സമാനമാണ് ഇവിടെ ഒരു സ്ട്രിപ്പ് ഒരേ വീതി മാത്രമാണ് അതിനാൽ ഇവ വിവിധ തരം ഫീലർ ഗേജാണ് അതെ ഇത് ഒരു ആംഗിൾ ഫീലർ ഗേജ് ആംഗിൾ ഫീലർ ഗേജ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് ആണ് ഈ സാഹചര്യത്തിൽ മോട്ടറിന്റെ സങ്കീർണ്ണമായ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനായി ഒരു അഗ്രത്തേക്ക് ഫീലർ ഗേജ് വളയുന്നു ചില ഭാഗങ്ങളുണ്ട് അതിൽ നമുക്ക് ഒരു നേരായ പാത ഉൾപ്പെടുത്താൻ കഴിയില്ല അത് ശരിയായി ചേർക്കാൻ കുറച്ച് വളഞ്ഞിരിക്കണം ഫീലർ ഗേജ് ഉപരിതല പ്ലേറ്റിൽ ഫ്ലാറ്റ്നെസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു വിടവ് ഉണ്ടോ എന്ന് കാണാൻ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ ഹയിറ്റ് ഗേജ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നേർത്തത് ഉൾപ്പെടുത്താൻ ശ്രമിക്കും ഹയിറ്റ് ഗേജിന്റെ അടിത്തറയ്ക്കും ഞങ്ങളുടെ ഉപരിതല പ്ലേറ്റിന്റെ മുകളിലെ ഉപരിതലത്തിനുമിടയിലുള്ള ഫീലർ ലീഫ് അത് അവരുടെ വിടവാണോ അല്ലയോ എന്ന് ചേർക്കുന്നുണ്ടോ അതിനാൽ നമുക്ക് അത് കാണാൻ കഴിയും ചിലപ്പോൾ വാർപ്പുകൾ ഉണ്ടാകാം അവിടെ ബംപ് ഉണ്ടാകാം ചില ഘട്ടങ്ങളിൽ ഫീലർ ഗേജ് അത് ചേർക്കില്ല അതിനാൽ ഫീലർ ഗേജ് ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശ്യം ഇതാണ് മറ്റ് ഗേജുകൾ പിച്ച് ഗേജ് അല്ലെങ്കിൽ ത്രെഡ് ഗേജ് പോലെയാണ് ഇവ ലബോറട്ടറി പ്രകടനത്തിന്റെ അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നന്ദി പിച്ച് ഗേജ് വെർനിയർ ഹയിറ്റ് ഗേജ് തുടർന്ന് സൈൻ ബാർ കോമ്പിനേഷൻ ഗേജ് കോമ്പിനേഷൻ തുടങ്ങിയ ഉപകരണങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മൾ വീണ്ടും കാണും സ്ലിപ്പ് ഗേജുകളും വെർനിയർ അല്ലെങ്കിൽ ഗിയർ വെർനിയറും ഈ ഉപകരണങ്ങൾ ചർച്ചചെയ്യപ്പെടും ഇവയുടെ പ്രകടനം കാണുന്നതിന് നമ്മൾ ലബോറട്ടറിയിലേക്ക് പോകും കോർഡിനേറ്റ് അളവ് മെഷീനുകൾ അഥവാ കോർഡിനേറ്റ് മെഷറിങ് മെഷീനുകൾ ഉപയോഗിച്ച് കോർഡിനേറ്റ് എങ്ങനെ കാണും എന്നതും നോക്കും അതിനാൽ ലബോറട്ടറി പ്രകടനത്തിലെ അടുത്ത സെഷനിൽ കാണാം നന്ദി